സ്ട്രെസ് ഫങ്ഷൻ ഒരു സീരീസ് സൊല്യൂഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യങ്ങൾ എന്നിവ പരിശോധിക്കും വാസ്തവത്തിൽ രണ്ട് ക്ലാസുകൾ മുമ്പ് നമ്മൾ മോഡ് I സാഹചര്യത്തിനായുള്ള ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അവസാന ക്ലാസ്സിൽ നമ്മൾ വില്യമിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച്Williams Eigen Function approach പഠിച്ചു വെസ്റ്റർഗാർഡിന്റെ അപ്പ്രോച്ചിന്റെ കാര്യത്തിൽ ഇത് കോംപ്ലെക്സ് വേരിയബിളുകൾ ഉപയോഗിച്ചു എന്നാൽ വില്യംസിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച് റിയൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചു വില്യംസ് എന്താണ് പരിഗണിച്ചത് അദ്ദേഹം ഒരു വെഡ്ജ് പരിഗണിച്ചു സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ r പവർ ലാംഡ പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ എഫ് ഓഫ് തീറ്റ എന്ന് എടുക്കാമെന്ന് അദ്ദേഹം പരാമർശിച്ചു നമ്മൾ എന്താണ് ചെയ്തത് ക്രാക്ക് ഫേസിൽ നമ്മൾ ബൌണ്ടറി കണ്ടീഷൻസ് പ്രയോഗിച്ചു ക്രാക്ക് ഫേസ് ഫ്രീ ആണ് ബൌണ്ടറി കണ്ടീഷൻസ് ഇതൊക്കെ ആണ്ടോ ആർ തീറ്റ ഈക്വൽ റ്റു 0 സിഗ്മ തീറ്റ ഈക്വൽ റ്റു 0 അറ്റ് തീറ്റ ഈക്വൽറ്റു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആൽഫ ആൽഫ പൈ ആകുമ്പോൾ പ്രോബ്ലം ഒരു ക്രാക്ക് പ്രോബ്ലം ആയി മാറുന്നു നിങ്ങൾ ഒരു വശം കൂടി ശ്രദ്ധിക്കണം ഇംഗ്ലിസിന്റെ സൊല്യൂഷൻ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കൂ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ എലിപ്റ്റിക്കൽ ഹോളിന്റെ പ്രോബ്ലം അദ്ദേഹം പരിഹരിച്ചു എലിപ്റ്റിക്കൽ ഹോളിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ വിശകലനത്തിൽ നിന്ന് എങ്ങനെ ഒരു ക്രാക്ക് കൂടുതൽ അപകടകരമാകുമെന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു സമാനമായ രീതിയിൽ വില്യംസ് ചെയ്തതുപോലെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വെഡ്ജ് പ്രോബ്ലം എടുത്തു ആൽഫയുടെ മൂല്യം മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് വിവിധതരം വെഡ്ജ് ആംഗിളുകൾക്ക് സൊല്യൂഷൻ ലഭിക്കും നിങ്ങൾ ആൽഫയെ പൈയ്ക്ക് തുല്യമാക്കുമ്പോൾ അത് ഒരു ക്രാക്ക് ആയി മാറുന്നു അതിനാൽ രണ്ടിനും ചില സാമ്യതകളുണ്ടായിരുന്നു പരിമിതപ്പെടുത്തുന്ന കേസിൽ അവർ ഒരു ക്രാക്കിന്റെ പ്രോബ്ലം പരിഗണിക്കുന്നു ക്രാക്ക് ഫേസ് എങ്ങനെയുണ്ട് ക്രാക്ക് ഫേസ് ഫ്രീ ആണ് വില്യമിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച്Williams Eigen Function approach നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് അടുത്ത അധ്യായത്തിൽ വെസ്റ്റർഗാർഡിന്റെ പൊതുവായ സ്ട്രെസ് ഫംഗ്ഷൻ അപ്പ്രോച്ചിൽ ലോഡ് ചെയ്ത ക്രാക്ക് ഫേസ് നമ്മൾ കാണും അവയും വളരെ പ്രധാനമാണ് ഒരു എഞ്ചിനീയറിംഗ് വിശകലനത്തിൽ നിന്ന് ഒരു റിവേറ്റഡ് ഹോളിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അവിടെ ഇരിക്കുന്ന റിവറ്റ് ക്രാക്ക് ഫേസിൽ ഒരു ശക്തി പ്രയോഗിക്കും അതിനാൽ വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ അപ്പ്രോച്ചിന്റെ ഒരു ഗുണം ലോഡ് ചെയ്ത ക്രാക്ക് ഫെയ്സുകളെക്കുറിച്ചും പഠിക്കാം എന്നതാണ് ഇപ്പോൾ നമ്മൾ വില്യമിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച്Williams Eigen Function approach തുടരും സ്ട്രെസ് ഫംഗ്ഷൻ ഫോം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു ബൌണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചു അനന്തമായി സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല ക്രാക്ക് ഫേസ് ഫ്രീ ആണെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റി എത്തുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സുഗമമായി വ്യത്യാസപ്പെടുന്ന ലോഡിംഗ് സാഹചര്യമുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു നീണ്ട ചർച്ച നടത്തി തുടർന്ന് ഐഗേൻ മൂല്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി ഐഗേൻ മൂല്യങ്ങൾ പോസിറ്റീവ് സംഖ്യകളായിരിക്കണം അതിന്റെ യുക്തിയും നമ്മൾ പരിശോധിച്ചു നാല് കോഎഫിഷ്യന്റ്സ് തമ്മിൽ പരസ്പരബന്ധം നിലവിലുണ്ടെന്നും നമ്മൾ അഭിപ്രായപ്പെട്ടു സി 3 ഉം സി 1 ഉം സി 4 ഉം സി 2 ഉം തമ്മിൽ പരസ്പര ബന്ധമുണ്ട് വില്യമിന്റെ സിംഗിൾ സൊല്യൂഷനും സ്ട്രെസ് ഫംഗ്ഷന്റെ ആറ് ടേം ഉള്ള സൊല്യൂഷനും nഈക്വൽ റ്റു 1 3 5 എന്നിവയ്ക്ക് നമ്മൾ ഇത് നോക്കി nഈക്വൽ റ്റു 2 4 6 ന് നമ്മൾ ഇത് പരിശോധിച്ചു അതിനാൽ ഇപ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ പൂർണ്ണമായും എഴുതാൻ നമ്മൾ തയ്യാറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയ അഭ്യാസം എന്തുതന്നെയായാലും ഈ ക്ലാസ് പ്രോബ്ലെത്തിന്റെ സ്ട്രെസ് ഫങ്ഷൻ എന്താണെന്ന് എഴുതാൻ അത് നമ്മളെ സഹായിച്ചു സ്ട്രെസ് ഫംഗ്ഷൻ ഇതുപോലെയായി മാറുന്നു ഈ ക്ലാസ്സിൽ നിങ്ങൾ ദീർഘമായ എക്സ്പ്രഷനുകൾ എഴുതേണ്ടതുണ്ട് വേറൊരു വഴിയുമില്ല അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്കായി ഇത് വായിക്കും സ്ട്രെസ് ഫംഗ്ഷൻ ഫൈക്ക് 2 സമ്മേഷൻ സീരീസ് ഉണ്ട് ഒന്ന് N ഈക്വൽ റ്റു 1 3 5 ഒറ്റ സംഖ്യകൾക്ക് തുല്യമാകുമ്പോൾ ഒരു സീരീസ് N ഈക്വൽ റ്റു 2 4 6 മുതലായ സംഖ്യകളായിരിക്കുമ്പോൾ മറ്റൊരു സീരീസ് ആദ്യ സീരീസ് ഇതുപോലെയാണ് r പവർ 1 പ്ലസ് n ബൈ 2 ഇന്റു C 1 n കോസ് n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 തീറ്റ മൈനസ് n മൈനസ് 2 ബൈ n പ്ലസ് 2 കോസ് എൻ പ്ലസ് 2 ബൈ 2 തീറ്റ പ്ലസ് സി 2 എൻ ഇന്റു സൈൻ n മൈനസ് 2 ബൈ 2 തീറ്റ മൈനസ് സൈൻ n പ്ലസ് 2 ബൈ 2 തീറ്റ N ഈക്വൽ റ്റു 2 4 6 ആണ് രണ്ടാമത്തെ സീരീസ് നിങ്ങൾക്ക് r പവർ 1 പ്ലസ് n ഉം 2 ഇന്റു സി 1 n cos n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 തീറ്റ മൈനസ് കോസ് എൻ പ്ലസ് 2 ബൈ 2 തീറ്റ വാസ്തവത്തിൽ വായിക്കുമ്പോൾ ഞാൻ ബ്രാക്കറ്റുകൾ വായിക്കുന്നില്ല സ്ലൈഡിലെ ചിത്രം നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ബ്രാക്കറ്റുകൾ ഉചിതമായി ഇടാൻ കഴിയും കൂടാതെ പ്ലസ് സി 2 എൻ സൈൻ എൻ മൈനസ് 2 ബൈ 2 തീറ്റ മൈനസ് എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ പ്ലസ് 2 സൈൻ എൻ പ്ലസ് 2 ബൈ 2 തീറ്റ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്കുള്ളത് എന്താണ് നിങ്ങൾക്ക് ഒരു സിമെട്രിക് ഭാഗവും ആന്റി സിമെട്രിക് ഭാഗവുമുണ്ട് ഇത് നമ്മൾ വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷൻ അപ്പ്രോച്ചിൽ കണ്ടിട്ടില്ല മോഡ് I പ്രോബ്ലം നമ്മൾ വെവ്വേറെപരിഹരിച്ചു നമ്മൾ മോഡ് II പ്രോബ്ലം പ്രത്യേകം പരിഹരിച്ചു നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഒന്നാമത്തെ നീരീക്ഷണം ഇതാണ് ഒരു ശ്രേണിയുടെ രൂപത്തിലാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ലഭിക്കുന്നത് രണ്ടാമത്തെ നീരീക്ഷണം ഇതാണ് നിങ്ങൾക്ക് കോസൈൻ പദങ്ങളും സൈൻ പദങ്ങളും ഉണ്ട് സി 1 എൻ ഉൾപ്പെടുന്ന എല്ലാ കോസൈൻ പദങ്ങളും എനിക്ക് ഗ്രൂപ്പുചെയ്യാൻ കഴിഞ്ഞു ഇത് സിമെട്രിക് ആണ് മോഡ്1 ലോഡിങ്ങിനുള്ള സ്ട്രെസ് ഫംഗ്ഷനാണിത് നിങ്ങൾക്ക് ഒരു ആന്റി സിമെട്രിക് ഭാഗം ഉണ്ട് നിങ്ങൾക്ക് ഒരു സൈൻ ഫങ്ഷൻ ഉണ്ട് C 2 n മായി ബന്ധപ്പെട്ട ഏത് പദങ്ങളും മോഡ് II ഉൾപ്പെടുന്ന ക്രാക് പ്രോബ്ലെംസ് പരിഹരിക്കും അതിനാൽ ഒറ്റയടിക്ക് വില്യമിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ചിന്റെ കാര്യത്തിൽ മോഡ് I മോഡ് II എന്നിവയ്ക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് രണ്ടാമത്തെ നീരീക്ഷണം ആണ് നമുക്ക് ഒരു നിരീക്ഷണം കൂടി ഉണ്ടാകും നോക്കൂ ഞാൻ മോഡ് 1 ലോഡിങ്ങിലെ രണ്ടാമത്തെ ടേം നോക്കുകയാണെങ്കിൽ അത് n ഈക്വൽ റ്റു 2 ആണ് നിങ്ങൾ ഈ പദപ്രയോഗം എഴുതുകയാണെങ്കിൽ എനിക്ക് ഇത് r സ്ക്വയേർഡ് സി 1 2 കോസ് 0 ആയി ലഭിക്കും അങ്ങനെ ഇത് 1 മൈനസ് കോസ് 2 തീറ്റ ആകും അതിനാൽ അത് സ്ട്രെസ് ഫംഗ്ഷന്റെ രണ്ടാമത്തെ ടേം ആയിരിക്കും നിങ്ങൾ മനസിലാക്കുക നിങ്ങൾ സ്ട്രെസ് ഫംഗ്ഷനാണ് നോക്കുന്നത് സ്ട്രെസ് ഫംഗ്ഷന്റെ രൂപങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനാൽ ഈ സ്ട്രെസ് ഫംഗ്ഷന്റെ രൂപം നോക്കുകയാണെങ്കിൽ r സ്ക്വയർ ഇന്റു 1 മൈനസ് കോസ് 2 തീറ്റ ഇത് യഥാർത്ഥത്തിൽ x ദിശയിലുള്ള ഒരു യൂണി ആക്സിയൽ സ്ട്രെസ് ഫീൽഡിനെ പ്രതിനിധീകരിക്കുന്നു 1957 ൽ വില്യംസ് സൊല്യൂഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതും നിരീക്ഷിച്ചു നിങ്ങൾക്കറിയാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽഅതായത് നിങ്ങൾ ക്രാക്ക് പ്രോബ്ലെംസ് വിശകലനം ചെയ്യുമ്പോൾ മോഡലിംഗിനായി സീരീസിൽ കഴിയുന്നത്ര പദങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ വ്യത്യസ്തമായി നോക്കുകയും അത് വ്യത്യസ്തമായി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു യൂണി ആക്സിയൽ ലോഡിംഗ് സാഹചര്യം ഉണ്ടെന്ന് കരുതുക വെർട്ടിക്കൽ എഡ്ജ് ഫ്രീ ആകുമ്പോൾ ബൌണ്ടറി കണ്ടീഷൻസിനെ തൃപ്തിപ്പെടുത്തുന്നതിന് കോൺസ്റ്റന്റ് സി 1 2 0 ആകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് വളരെ നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയിരുന്നില്ലെങ്കിൽഈ സീരീസിലെ രണ്ടാമത്തെ ടേമിന്റെ പങ്ക് ആളുകൾ അപ്പോൾ തന്നെ മനസ്സിലാക്കുമായിരുന്നു അദ്ദേഹം ആ പ്രസ്താവന നടത്തിയതിനാലും ആളുകൾ ക്രാക്ക് ടിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലും അവർ സിംഗുലർ ഫീൽഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ത് വഴിയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് പ്രശ്നത്തിനും സീരീസ് രൂപത്തിൽ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഏത് തരത്തിലുള്ള സാഹചര്യമാണ് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ കോഎഫിഷ്യന്റ്സിനെ വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങൾ കഴിയുന്നത്ര കോഎഫിഷ്യന്റ്സ് എടുക്കുമ്പോൾ അത് ഫാർ ഫീൽഡ് ബൌണ്ടറി കണ്ടീഷൻസിനെ തൃപ്തിപ്പെടുത്തും നിങ്ങൾക്ക് ഒരു ഫ്രീ എഡ്ജ് ഉള്ളപ്പോൾ അത് സി 1 2 മാത്രമല്ല 0 ആകേണ്ടത് നിരവധി കോഎഫിഷ്യന്റ്സിന്റെ സംയോജനം ആ ബൌണ്ടറി കണ്ടീഷൻസിനെ തൃപ്തിപ്പെടുത്തും അങ്ങനെയാണ് ഏതൊരു പൊതു സൊല്യൂഷനും നോക്കേണ്ടത് ആളുകൾ ഒരു ടെൻഷൻ സ്ട്രിപ്പിലെ വൃത്താകൃതിയിലുള്ള ഹോൾ ടെൻഷൻ സ്ട്രിപ്പിലെ എലിപ്റ്റിക്കൽ ഹോൾ എന്നിവ നോക്കിയതിനാൽ ക്രാക്ക് പ്രശ്നങ്ങൾക്കും അവർ യൂണി ആക്സിയൽ ലോഡിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വെസ്റ്റർഗാർഡ് സൊല്യൂഷനിൽ അടിസ്ഥാന അപ്പ്രോച്ച് ബൈ ആക്സിയൽ സ്ട്രെസ് ഫീൽഡിലായിരുന്നു അത് യൂണി ആക്സിയൽ സ്ട്രെസ് ഫീൽഡിന് വേണ്ടിയല്ല എന്നാൽ എല്ലാം നോക്കിയ ശേഷം നമുക്ക് നമ്മുടേതായ ധാരണയുണ്ട് z നോട്ട് 0 ന് വളരെ അടുത്താണ് ക്രാക്കിന്റെ നീളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ് നിങ്ങൾ പ്രധാനമായും ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തുള്ള ഒരു സോണിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ ശരിക്കും സംഭവിക്കുന്നത് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ ക്രാക്ക് ഫെയ്സ് ഡിസ്പ്ലേമെന്റുകൾ മാത്രമാണ് പ്രധാനം ഇത് ഓപ്പണിംഗ് മോഡ് ആയാലും പ്ലെയിൻ ഷിയർ മോഡിലായാലും അല്ലെങ്കിൽ ഷിയർ പ്ലെയിൻ മോഡിൽ നിന്നായാലും നിങ്ങൾ ക്രാക്ക് ഫെയ്സ് ഡിസ്പ്ലേസ്മെന്റുകളിൽ മാത്രം നോക്കണം ഫാർ ഫീൽഡ് ലോഡിംഗ് സെക്കണ്ടറി ആണ് അതിനാൽ നിങ്ങൾ ഒരു മൾട്ടി പാരാമീറ്റർ സൊല്യൂഷൻ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ നമുക്ക് പറയാനുള്ളത് പരിഗണനയിലുള്ള നിങ്ങളുടെ പ്രശ്നത്തെ തൃപ്തിപ്പെടുത്തുന്ന നിരവധി പദങ്ങൾ എടുക്കുക നിങ്ങൾക്കറിയാമെങ്കിൽ അടുത്ത ഘട്ടം എന്താണെന്ന് കാണുക നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും പോളാർ കോർഡിനേറ്റുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ ഫൈ അറിയാമെങ്കിൽ സിഗ്മ ആർആർ ഈക്വൽ റ്റു 1 ബൈ r ഡോ ഫൈ ബൈ ഡോ r പ്ലസ് 1 ബൈ r സ്ക്വയർ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ ആണ് കൂടാതെ സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ റ്റു ഡോ സ്ക്വയേർഡ് ഫൈ ബൈ ഡോ ആർ സ്ക്വയർ ടോ ആർ തീറ്റ ഈക്വൽ റ്റു മൈനസ് ഡോ ബൈ ഡോ r ഓഫ് 1 ബൈ r ഡോ ഫൈ ബൈ ഡോ തീറ്റ ആണ് വാസ്തവത്തിൽ നിങ്ങൾ കുറഞ്ഞത് സിഗ്മ തീറ്റ തീറ്റയെങ്കിലും ചെയ്തു നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഫൈ എന്ന ഫംഗ്ഷൻ ഉണ്ട് നിങ്ങൾ പല പദങ്ങളും എടുക്കുന്നില്ല ആദ്യ ടേം എടുക്കുക നിങ്ങൾ C 11 മാത്രമേ നോക്കേണ്ടതുള്ളൂ നിങ്ങൾക്ക് ഐറിസ് സ്ട്രെസ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് സി 11 നായി നിങ്ങൾ സിഗ്മ തീറ്റ തീറ്റ കണ്ടെത്തുന്നു കണ്ടെത്താനുള്ള ഏറ്റവും ലളിതമായത് അതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പോളാർ ഘടകങ്ങൾ ലഭിക്കാൻ പോകുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ സിഗ്മ ആർ സിഗ്മ തീറ്റ ടോ ആർ തീറ്റ നോക്കുകയാണ് അവ r തീറ്റ കോർഡിനേറ്റുകളുടെ ഫോമിലും പ്രകടിപ്പിക്കും അതിനാൽ വെസ്റ്റർഗാർഡ് സൊല്യൂഷനിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായിരിക്കണം ഈ എക്സ്പ്രഷൻ അതിനാൽ തെറ്റായ നിഗമനത്തിലെത്തരുത് എനിക്ക് സ്ട്രെസ് ഫീൽഡിനായി എക്സ്പ്രഷനുകൾ ഉണ്ട് അവ വെസ്റ്റർഗാർഡിൽ നിന്ന് വ്യത്യസ്തമാണ് അവ വ്യത്യസ്തമായിരിക്കണം കാരണം ഇവിടെ നിങ്ങൾ സിഗ്മ ആർ സിഗ്മ തീറ്റയും ടോ r ആർ തീറ്റയും നോക്കുന്നു ഇതിനെ കാർറ്റീഷ്യൻ കോർഡിനേറ്റ്സ് ആക്കുമ്പോൾ സൊല്യൂഷൻ സമാനമായിരിക്കും കാരണം ഇത് വീണ്ടും വെസ്റ്റർഗാർഡ് സൊല്യൂഷന്റെ കാര്യത്തിൽ r തീറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കാർട്ടീഷ്യൻ സ്ട്രെസ് ഘടകങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും ഊന്നി പറയുന്നു ദയവായി ഇത് ചെയ്തു നോക്കുക ക്ലാസ് പിന്തുടരാൻ ഇത് നിങ്ങളെ സഹായിക്കും നമ്മൾ ചെയ്യേണ്ടത് സിംഗുലാർ സൊല്യൂഷനും മൾട്ടി പാരാമീറ്റർ സൊല്യൂഷനും ആണ് നിങ്ങൾ ഇത് ചെയ്യണം എന്തായാലും ഇതിനകം ഇത് ചെയ്തവരുടെ പ്രയോജനത്തിനായി പോളാർ കോർഡിനേറ്റുകളിൽ നമുക്ക് ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ ലഭിക്കുന്നു ഒരു ടെം വൺ ലഭിക്കുന്ന വിധം ഞാൻ എഴുതി കൂടാതെ ചില ഡോട്ടുകളും ഞാൻ ഒരു ഫാഷനിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ ടെം ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് സിഗ്മ ആർ സിഗ്മ തീറ്റ ടോ ആർ തീറ്റ എന്നിവയുണ്ട് പുറത്തെടുക്കുന്ന പൊതു ഘടകം KI യെ 4 റൂട്ട് ഓഫ് 2 പൈ r കൊണ്ട് ഹരിക്കുന്നു നിങ്ങൾക്ക് തീറ്റയുടെ ഒരു ഫങ്ഷൻ ഉണ്ട് സിഗ്മ r നു ഫംഗ്ഷൻ 5 കോസ് തീറ്റ ബൈ 2 മൈനസ് cos 3 തീറ്റ ബൈ 2 സിഗ്മ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് 3 കോസ് തീറ്റ ബൈ 2 പ്ലസ് കോസ് 3 തീറ്റ ബൈ 2 ഉം ആണ് കൂടാതെ നിങ്ങൾക്ക് ടോ ആർ തീറ്റ എന്നാൽ സൈൻ തീറ്റ ബൈ 2 പ്ലസ് സൈൻ 3 തീറ്റ ബൈ 2 ആണ് നോക്കൂ വെസ്റ്റർഗാർഡിന്റെ സിംഗുലാർ സൊല്യൂഷൻ നോക്കിയ ശേഷം നമ്മൾ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു നമ്മൾ സ്ട്രെസ് ഫീൽഡിലേക്ക് നോക്കി സിഗ്മ എക്സ് സിഗ്മ വൈ എന്നിവ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നും നമ്മൾ പരിശോധിച്ചു ക്രാക്ക് ടിപ്പിൽ നമ്മൾ എന്താണ് ശ്രദ്ധിച്ചത് ക്രാക്ക് ടിപ്പിൽ നമ്മൾ സിഗ്മ x സിഗ്മ y ക്ക് തുല്യമാണ് എന്ന് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിൽ ഒരു ഷിയർ സ്ട്രെസ് ഇല്ല അത് 0 ആണ് അതിനാൽ സിഗ്മ x സിഗ്മ y എന്നിവ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് അതിനാൽ രണ്ട് അളവുകൾ തുല്യമാകുമ്പോൾ ഓരോ ദിശയും ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് ദിശയാണ് അപ്പോൾ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് സിഗ്മ ആർ സിഗ്മ തീറ്റ എന്നിവ എങ്ങനെ ഉണ്ടായിരിക്കണം അവരും തുല്യരായിരിക്കണം നമുക്ക് അത് തുല്യമാണോ സൊല്യൂഷൻ നോക്കാം അതിനാൽ ക്രാക്ക് ടിപ്പിൽ നിങ്ങൾ തീറ്റ 0 ന് തുല്യമാണെന്ന് പറയും അതിനാൽ ഞാൻ തീറ്റയെ 0 ന് തുല്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇത് 5 മൈനസ് 1ആയി ഉണ്ട് അതിനാൽ ഇത് 4 ഇത് 3 പ്ലസ് 1 ആയിരിക്കുംഅപ്പോൾ ഇതും 4 ആയിരിക്കും നിങ്ങളുടെ ടോ ആർ തീറ്റ 0 ആകാൻ പോകുന്നു ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇത് ഏതു തരം സ്ട്രെസ് ഫീൽഡ് ആണ് പ്രത്യേകിച്ചും നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം നോക്കുമ്പോൾ അത് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ആണ് നിങ്ങൾക്ക് ഒരു സിഗ്മ z ഘടകവും ഉണ്ടാകും ആളുകൾ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് ഒരു ട്രൈ ആക്സിയൽ ലോഡിംഗ് സാഹചര്യമുണ്ട് നിങ്ങൾക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് തരം ലോഡിംഗ് ഉണ്ട് സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ നിന്ന് നിങ്ങൾക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് തരം ലോഡിംഗ് ഉള്ളപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത് എന്താണ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഫ്ലോ ഉണ്ടാകരുത് അതിനാൽ മെറ്റീരിയൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫെയ്ലിയർ മെക്കാനിസം പിന്തുടരേണ്ടതുണ്ട് തന്റെ ഫലങ്ങൾ ചർച്ചചെയ്യുമ്പോൾ വില്യംസും ഇത് സൂചിപ്പിച്ചതിന്റെ കാരണം ഇതാണ് ക്രാക്ക് ടിപ്പിന് സമീപം നിങ്ങൾക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് തരം ലോഡിംഗ് ഉള്ളതിനാൽ അത് കണക്കിലെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ഫ്ലോക്കു സാധ്യതയില്ല ക്ളീവേയ്ജ് മൂലം മെറ്റീരിയൽ പരാജയപ്പെടുന്നു നിങ്ങൾക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് തരം ലോഡിംഗ് ഉണ്ടെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് സ്ട്രെസ് തുല്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് പിന്നീട് ട്രൈ ആക്സിയൽ കൺസ്ട്രയിന്റ് എന്നറിയപ്പെടുന്ന കാര്യങ്ങളും നോക്കാം അതിനാൽ നമ്മൾ എല്ലാം നോക്കും അതിനാൽ ഈ സ്ട്രെസ് ഫീൽഡ് നിരപരാധിയല്ല R 0 ലേക്ക് പോകുമ്പോൾ സ്ട്രെസ് സിംഗുലാർ ആകുമെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു മോഡ് I സാഹചര്യത്തിനായി നമ്മൾ നേടിയത് ഇതാണ് സമാനമായി മോഡ് II നായുള്ള സ്ട്രെസ് ഫീൽഡും നിങ്ങൾക്ക് നേടാം മോഡ് II ഇത് ഇതുപോലെയാണ് എനിക്ക് സിഗ്മ ആർ സിഗ്മ തീറ്റ ടോ ആർ തീറ്റ എന്നിവയുണ്ട് അത് കെ II ഡിവൈഡഡ് ബൈ 4 റൂട്ട് 2 പൈ ആർ ഇന്റു മൈനസ് 5 സൈൻ തീറ്റ ബൈ 2പ്ലസ് 3 സൈൻ തീറ്റ ബൈ 2 ഇത് സിഗ്മ ആർ സിഗ്മ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ മൈനസ് 3 സൈൻ തീറ്റ ബൈ 2 മൈനസ് സൈൻ 3 തീറ്റ ബൈ 2 ആണ് കൂടാതെ നിങ്ങൾക്ക് ടോ ആർ തീറ്റ ഈക്വൽറ്റു കോസ് തീറ്റ ബൈ 2 പ്ലസ് 3 കോസ് 3 തീറ്റ ബൈ 2 ഉം ഉണ്ട് ഇത് എഴുതുമ്പോഴും നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ പദങ്ങളുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് എഴുതുന്നത് നോക്കൂ നിങ്ങൾ വില്യംസ് ഫംഗ്ഷൻ അപ്പ്രോച്ച് പിന്തുടരുമ്പോൾ ഉയർന്ന ഓർഡർ ടെം വ്യക്തമാണ് നിങ്ങൾ വില്യമിന്റെ ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച്Williams Eigen Function approach ചെയ്യുമ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ ഒരു സീരീസ് രൂപത്തിലാണ് നിങ്ങൾക്ക് ശ്രേണിയിൽ നിരവധി പദങ്ങൾ ലഭിക്കും സിംഗുലാർ ആയ ആദ്യത്തെ ടേം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ ശരിക്കും പരീക്ഷണാത്മക സാഹിത്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആളുകൾ കോസ്റ്റിക്സ് രീതി ഉപയോഗിക്കുമ്പോൾപോളാർ കോർഡിനേറ്റുകളിലെ സ്ട്രെസ് ഫീൽഡ് അവർ നേരിട്ട് എടുക്കുന്നു നിങ്ങൾ പോയി കോസ്റ്റിക്സിലെ ഏതെങ്കിലും പേപ്പർ നോക്കുമ്പോൾ ഈ സമവാക്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമാണെന്ന് കണ്ടെത്താം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യ ടേമിൽ നമ്മൾ അവസാനിപ്പിക്കില്ല ഒരു മൾട്ടി പാരാമീറ്റർ സൊല്യൂഷൻ കാണും നമ്മൾ നിരവധി പദങ്ങൾ കാണില്ല ഒരു 6 ടേം സൊല്യൂഷൻ നോക്കാം അക്ഷരങ്ങൾ വളരെ ചെറുതാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്നത് വലുതാക്കിയാലും നിങ്ങൾക്ക് പൂർണ്ണമായ സ്ട്രെസ് ഫീൽഡ് കാണാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ ഞാൻ അവ വായിക്കാം അതിനൊപ്പം നിങ്ങൾ എഴുതണം എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് പതുക്കെ പറയാൻ എന്നെ അറിയിക്കുക ഈ സമവാക്യങ്ങൾ വളരെ പ്രധാനമാണ് ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ അവ പുസ്തകങ്ങളിൽ കാണില്ല അതിനാൽ കോഴ്സിന്റെ അവസാനം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട റിസൾട്ടുകളുടെ ശേഖരം ഉണ്ടായിരിക്കണം നിങ്ങൾ എന്നോടൊപ്പം എഴുതാൻ തുടങ്ങുക സിഗ്മ r ന് എനിക്ക് ആറ് പദങ്ങളുണ്ട് ഇത് ആരംഭിക്കുന്നത് ആദ്യ ടേമിൽ r പവർ മൈനസ് 1 ബൈ ഹാഫ് ഇന്റു c11 നിങ്ങൾക്ക് ഒരു കൂട്ടം ടെം ഉണ്ട് 5 ബൈ 4 കോസ് തീറ്റ ബൈ 2 മൈനസ് 1 ബൈ 4 കോസ് 3 തീറ്റ ബൈ 2 പ്ലസ് 4 സി 12 കോസ് സ്ക്വയേർഡ് തീറ്റ പ്ലസ് ആർ പവർ ഹാഫ് 3 സി 13 ഇന്റു 3 ബൈ 4 കോസ് തീറ്റ ബൈ 2 പ്ലസ് 1 ബൈ 4 കോസ് 5 തീറ്റ ബൈ 2 പ്ലസ് 2 ആർ സി 14 ഇന്റു കോസ് തീറ്റയും പ്ലസ് 3 കോസ് 3 തീറ്റ പ്ലസ് ആർ പവർ 3 ബൈ 2 സി 15 ഇന്റു 5 ബൈ 4 കോസ് 3 തീറ്റ ബൈ 2പ്ലസ് 15 ബൈ 4 കോസ് 7 തീറ്റ ബൈ 2 പ്ലസ് ആർ സ്ക്വയേർഡ് സി 16 ഇന്റു 12 കോസ് 4 തീറ്റ അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് രണ്ടാമത്തെ ടേം നോക്കൂ രണ്ടാമത്തെ ടേം സിഗ്മ r ൽ കോൺസ്റ്റന്റ് ആയ ഒരു പദമാണ് അതിനാൽ മുമ്പ് തെറ്റിദ്ധരിച്ച ഈ അധിക ടേം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഇത് കണക്കിലെടുക്കണം സിഗ്മ തീറ്റയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഉണ്ട് അത് ആർ പവർ മൈനസ് ഹാഫ് 3 ബൈ 4 സി 11 കോസ് തീറ്റ ബൈ 2 പ്ലസ് 1 ബൈ 3 കോസ് 3 തീറ്റ ബൈ 2 രണ്ടാമത്തെ ടേം 4 സി 12 സൈൻ സ്ക്വയേർഡ് തീറ്റ പ്ലസ് ആർ പവർ ഹാഫ് 15 ബൈ 4 സി 13 ഇന്റു കോസ് തീറ്റ ബൈ 2 മൈനസ് 1 ബൈ 5 കോസ് 5 തീറ്റ ബൈ 2 അടുത്ത ടേം 6 ആർ സി 14 കോസ് തീറ്റ മൈനസ് കോസ് 3 തീറ്റ പ്ലസ് 35 ബൈ 4 ആർ പവർ 3 ബൈ 2 സി 15 ഇന്റു കോസ് 3 തീറ്റ ബൈ 2 മൈനസ് 3 ബൈ 7 കോസ് 7 തീറ്റ ബൈ 2 പ്ലസ് 12 ആർ സ്ക്വയേർഡ് സി 16 കോസ് 2 തീറ്റ മൈനസ് കോസ് 4 തീറ്റ ഇത് സിഗ്മ തീറ്റ ആണ് ഇനി നിങ്ങൾ ടോ ആർ തീറ്റ കണ്ടുപിടിക്കുക ടോ ആർ തീറ്റ ഈക്വൽ റ്റു r പവർ മൈനസ് ഹാഫ് ഇന്റു 1 ബൈ 2 സി 11 ഇന്റു 1 ബൈ 2 സൈൻ തീറ്റ ബൈ 2 പ്ലസ് 1 ബൈ സൈൻ 3 തീറ്റ ബൈ 2 മൈനസ് 2 സി 12 സൈൻ 2 തീറ്റ പ്ലസ് ആർ പവർ ഹാഫ് 3 ബൈ 2 സി 13 ഇന്റു 1 ബൈ 2 സൈൻ തീറ്റ ബൈ 2 മൈനസ് ഹാഫ് സൈൻ ഫൈ തീറ്റ ബൈ 2 പ്ലസ് 2 ആർ സി 14 സൈൻ തീറ്റ മൈനസ് 3 സൈൻ 3 തീറ്റ പ്ലസ് ആർ പവർ 3 ബൈ 2 5 ബൈ 2 ഇന്റു c15 അതിനെ 3 ബൈ 2 സൈൻ 3 തീറ്റ ബൈ 2 മൈനസ് 3 ബൈ 2 സൈൻ 7 തീറ്റ ബൈ 2 കൊണ്ട് ഗുണിക്കുന്നു അവസാന ടേം 3 ആർ സ്ക്വയേർഡ് സി 16 2 സൈൻ 2 തീറ്റ മൈനസ് 4 സൈൻ 4 തീറ്റ നിങ്ങൾക്കറിയാമോ പദപ്രയോഗങ്ങൾ വളരെ ദൈർഘ്യമേറിയതാണ് ഇത് എന്തിനുവേണ്ടിയുള്ള 6 ടേം സൊല്യൂഷൻ ആണ് ഇത് മോഡ് I ലോഡിങ്ങിനുള്ളതാണ് കാരണം വില്യംസ് നിങ്ങൾക്ക് മോഡ് I മോഡ് II എന്നിവ നൽകുന്നു അതിനാൽ മോഡ് II നായി എനിക്ക് മറ്റൊരു കൂട്ടം എക്സ്പ്രഷനുകൾ ലഭിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇത് എഴുതാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു നമുക്കു വളരെ നല്ല മറ്റൊരു എക്സ്പ്രഷൻ ലഭിക്കും ഈ സങ്കീർണ്ണമായ പദപ്രയോഗങ്ങൾ നമ്മൾ എഴുതുമ്പോൾ മാത്രമേ ഇനി കിട്ടുന്ന എക്സ്പ്രഷൻ ഗംഭീരമാണെന്ന് നിങ്ങൾക്കു തോന്നു ആ അഭ്യാസം അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ എനിക്ക് മോഡ് II ഉണ്ട് എല്ലാ മോഡ് I ടെംസീനും നിങ്ങൾക്ക് c2 എന്ന് ആരംഭിക്കുന്ന കോഎഫിഷ്യന്റ് ഉണ്ട് അതിനാൽ സിഗ്മ r ഈക്വൽ റ്റു മൈനസ് r പവർ മൈനസ് 1 ബൈ 2 ഇന്റു c21 5 ബൈ 4 സിൻ തീറ്റ ബൈ 2 മൈനസ് 3 ബൈ 4 സൈൻ 3 തീറ്റ ബൈ 2 പ്ലസ് ആർ പവർ ഹാഫ് 3 സി 23 ഇന്റു 3 ബൈ സൈൻ തീറ്റ ബൈ 2 പ്ലസ് 5 ബൈ 4 സൈൻ 5 തീറ്റ ബൈ 2 രണ്ടാമത്തെ ടേം ഇവിടെ പൂജ്യമാണെന്ന് ഓർക്കുക ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സമവാക്യങ്ങളുടെ കാര്യത്തിലും ഞാൻ ഇതിനകം സൂചിപ്പിച്ചിരുന്നു മോഡ് II നുള്ള സിംഗുലാർ സൊല്യൂഷൻ പരീക്ഷണാത്മകമായി നിരീക്ഷിച്ച അതിരുകളുമായി യോജിക്കുന്നു രണ്ടാം ടേമിന്റെ പങ്ക് സ്വാധീനിച്ചിട്ടില്ല രണ്ടാമത്തെ ടേം 0 ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു സിഗ്മ എക്സ് സ്ട്രെസ് ഘടകമായ മോഡ് II നുള്ള ഒരു സീരീസ് സൊല്യൂഷൻ നിങ്ങൾ പരിഗണിക്കുമ്പോഴും രണ്ടാമത്തെ ടേം 0 ആണ് പോളാർ ഘടകങ്ങളിലും സമാനമായ ഒരു കാര്യം നിരീക്ഷിക്കപ്പെടുന്നു ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പോളാർ ഘടകങ്ങൾ കാർട്ടീഷ്യൻ ഘടകങ്ങളിലേക്ക് മാറ്റണം നിങ്ങൾക്ക് മൂന്നാമത്തെ പദം 2 r c24 സൈൻ തീറ്റ പ്ലസ് സൈൻ 3 തീറ്റ പ്ലസ് r പവർ 3 ബൈ 2 c25 5 ബൈ 4 സൈൻ 3 തീറ്റ ബൈ 2 പ്ലസ് 35 ബൈ 4 സൈൻ 7 തീറ്റ ബൈ y 2 പ്ലസ് r സ്ക്വയർഡ് c26 6 സൈൻ 4 തീറ്റ സിഗ്മ തീറ്റയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് മൈനസ് ആർ പവർ മൈനസ് ഹാഫ് ഇന്റു 3 ബൈ 4 സി 21 സൈൻ തീറ്റ ബൈ 2 പ്ലസ് സൈൻ 3 തീറ്റ ബൈ 2 പ്ലസ് ആർ പവർ ഹാഫ് 15 ബൈ 4 സി 23 സൈൻ തീറ്റ ബൈ 2 മൈനസ് സൈൻ 5 തീറ്റ ബൈ 2 പ്ലസ് 6 r c24 സൈൻ തീറ്റ മൈനസ് 1 ബൈ 3 സൈൻ 3 തീറ്റ പ്ലസ് 35 ബൈ 4 ആർ പവർ 3 ബൈ 2 സി 25 സൈൻ 3 തീറ്റ ബൈ 2 മൈനസ് സൈൻ 7 തീറ്റ ബൈ 2 അവസാന ടേം പ്ലസ് 12 ആർ സ്ക്വയർ സി 26 സൈൻ 2 തീറ്റ മൈനസ് ഹാഫ് സൈൻ 4 തീറ്റ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ടേം ഉണ്ട് r പവർ മൈനസ് ഹാഫ് 1 ബൈ 2 സി 21 ഇന്റു 1 ബൈ 2 കോസ് തീറ്റ ബൈ 2 പ്ലസ് 3 ബൈ 2കോസ് 3 തീറ്റ ബൈ 2 മൈനസ് ആർ പവർ ഹാഫ് 3 ബൈ 2 സി 23ഇന്റു 1 ബൈ 2 കോസ് തീറ്റ ബൈ 2 മൈനസ് 5 ബൈ 2 കോസ് 5 തീറ്റ ബൈ 2 എനിക്ക് ഈ അടുത്ത ടേം മൈനസ് 2 ആർ സി 24 കോസ് തീറ്റ മൈനസ് കോസ് 3 തീറ്റ മൈനസ് ആർ പവർ 3 ബൈ 2 5 ബൈ 2 സി 23 ഇന്റു 3 ബൈ 2 കോസ് 3 തീറ്റ ബൈ 2 മൈനസ് 7 ബൈ 2 കോസ് 7 തീറ്റ ബൈ 2 അവസാന ടേം മൈനസ് 3 ആർ സ്ക്വയേർഡ് സി 26 2 കോസ് 2 തീറ്റ മൈനസ് 2 കോസ് 4 തീറ്റ ഇപ്പോൾ വില്യംസ് ഐഗേൻ ഫംഗ്ഷൻ അപ്പ്രോച്ച് നൽകിയ പോളാർ കോർഡിനേറ്റുകളിൽ നിങ്ങൾക്ക് ആറ് ടേം സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾക്കറിയാമോ ഇത് വളരെ സങ്കീർണമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു രൂപം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ജനപ്രിയമാകുമായിരുന്നില്ല അറ്റ്ലൂരിയും കോബയാഷിയും ചേർന്ന് വളരെ നല്ലൊരു പ്രവൃത്തി ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ എല്ലാ മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളും അവർ വളരെ ഗംഭീരമായി ലളിതമാക്കി പ്രതിനിധീകരിച്ചു നമ്മൾ ഉടൻ തന്നെ ആ സൊല്യൂഷൻ നോക്കും അതിലേക്ക് പോകുന്നതിനുമുമ്പ് നമ്മൾ നോക്കേണ്ട ജനറലൈസ്ഡ് മോഡ് II വെസ്റ്റർഗാർഡ് സ്ട്രെസ് ഫംഗ്ഷന്റെ സ്ട്രെസ് ഫംഗ്ഷൻ എന്താണെന്നും നോക്കാം ഐറിസ് സ്ട്രെസ് ഫങ്ഷൻ മോഡ് II നായുള്ള ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ മോഡ് I സാഹചര്യത്തിനായി എന്തുചെയ്യണമെന്നത് മാത്രമാണ് നമ്മൾ നോക്കിയത് മോഡ് II ന്റെ കാര്യത്തിൽ ഐറിയുടെ സ്ട്രെസ് ഫംഗ്ഷൻ എങ്ങനെ മാറുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചിട്ടില്ല നമുക്ക് അത് പരിശോധിക്കാം ഞാൻ നിങ്ങൾക്ക് സ്ട്രെസ് ഫംഗ്ഷനും സ്ട്രെസ് ഫീൽഡും നൽകാൻ പോകുന്നു ഞാൻ ഗണിതശാസ്ത്ര വിശദാംശങ്ങളിൽ പ്രവേശിക്കില്ല ഐറിസ് സ്ട്രെസ് ഫങ്ഷൻ ഈ ഫോം ആകുന്നുYII ഡബിൾ ബാറിന്റെ ഇമേജിനറി പാർട്ട് നമ്മൾ മോഡ് II ചർച്ച ചെയ്യുന്നതിനാൽ ഞാൻ ഒരു സബ്സ്ക്രിപ്റ്റ് II ഇട്ടു മോഡ് I സാഹചര്യം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഇസഡ് ക്യാപിറ്റൽ വൈ എന്നിവ നൽകി ഞാൻ അവിടെ സബ്സ്ക്രിപ്റ്റ് നൽകിയില്ല മോഡ് II അവസ്ഥയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നതിനാൽ നമ്മൾ ഇവിടെ സബ്സ്ക്രിപ്റ്റ് II ഇടുന്നു എനിക്ക് സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ ഉണ്ട്ഇമേജിനറി പാർട്ട് ഓഫ് YII ഡബിൾ ബാർ മൈനസ് y റിയൽ പാർട്ട് ഓഫ് YII ബാർ പ്ലസ് റിയൽ പാർട്ട് ഓഫ് ZII ബാർ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ നേടിയ സിംഗുലാർ സൊല്യൂഷന് മൈനസ് ഈ മൈനസ് y റിയൽ പാർട്ട് ഓഫ് ZII ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് പദങ്ങളും അധികമാണ് ഐറി 'സ് ഫങ്ഷൻ നിർവ്വചിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽഡ് നേടാൻ കഴിയും ഞാൻ സ്ട്രെസ് ഫീൽഡ് സ്ട്രെസ് ഫംഗ്ഷനുകളുടെ രൂപത്തിൽ മാത്രമേ എഴുതുകയുള്ളൂ എനിക്ക് സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ എന്നിവ ഉണ്ട് സിഗ്മ x എന്നത് ഇമാജിനറി പാർട്ട് ഓഫ് YII പ്ലസ് y ഇന്റു റിയൽ പാർട്ട് ഓഫ് YII പ്രൈം പ്ലസ് റിയൽ പാർട്ട് ഓഫ് ZIIപ്രൈം പ്ലസ് 2 ഇമാജിനറി പാർട്ട് ഓഫ് ZII ആണ് നിങ്ങൾക്ക് സിഗ്മ y നൽകിയിട്ടുണ്ട് ഇമാജിനറി പാർട്ട് ഓഫ് YII മൈനസ് y ഇന്റു റിയൽ പാർട്ട് ഓഫ് YII പ്രൈം പ്ലസ് റിയൽ പാർട്ട് ഓഫ് ZIIപ്രൈം ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ എന്നത് മൈനസ് y ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് YII പ്രൈം പ്ലസ് ഇമാജിനറി പാർട്ട് ഓഫ് ZII പ്രൈം പ്ലസ് റിയൽ പാർട്ട് ഓഫ് ZII ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ജനറലൈസ്ഡ് മോഡ് II വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ ഉണ്ട് സ്ട്രെസ് ഫംഗ്ഷൻ ZII YII എന്നിവയുടെ രൂപം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സീരീസ് സൊല്യൂഷൻ നിർമ്മിക്കാൻ കഴിയും പരാമർശിക്കപ്പെടുന്നതെന്തെന്നാൽ YII ZII എന്നീ സ്ട്രെസ് ഫംഗ്ഷനുകൾക്ക് അവയുടെ മോഡ് I എക്സ്പ്രഷൻ പോലെ സമാനമായ രൂപമുണ്ട് മോഡ് I ലെ ആ ടെംസ് എന്താണ് മോഡ് I ൽ നിങ്ങൾക്ക് ഈ ഫങ്ഷൻ Z Y എന്നിവ ഒരു സീരീസ് സൊല്യൂഷൻ ആയി നൽകി അതിനാൽ ഇതുപോലുള്ള ഒരു സീരീസ് സൊല്യൂഷനായി നിങ്ങൾ ചെയ്യണം അതിൻറെ ബൌണ്ടറി കണ്ടീഷൻസ് തൃപ്തിപ്പെടുത്തുന്നതിന് ക്രാക്ക് ഫെയ്സുകളിൽ ZII ൻറെ റിയൽ പാർട്ട് 0 ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് മോഡ് I സാഹചര്യത്തിന് സമാനമായി ഇവിടെയും YII യുടെ ഇമാജിനറി പാർട്ട് y ഈക്വൽ റ്റു 0 ആയിരിക്കണം മോഡ് I നായി നമ്മൾ കണ്ട സ്ട്രെസ് ഫീൽഡുകളും നമ്മൾ നോക്കുന്നു ഇതിന് സമാനമായ ഒന്ന് മോഡ് II നായി കണ്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പദപ്രയോഗങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ ഈ പദപ്രയോഗങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അവ വളരെ വിചിത്രമാണെന്ന് ഞാൻ പറഞ്ഞു ആറ് പദങ്ങൾ ഉള്ള വില്യംസ് ഐഗേൻ സൊല്യൂഷൻ ഫലങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട് അവ എഴുതാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇനി പോയി അറ്റ്ലൂരിയും കോബയാഷിയും നൽകിയ സൊല്യൂഷൻ കാണാം സ്ട്രെസ് ഫീൽഡ് എക്സ്പ്രഷന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ് അവ നിങ്ങൾ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം എഴുതണം എനിക്ക് സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ എന്നിവ ഉണ്ട് അതിനാൽ ഈ പദപ്രയോഗങ്ങൾ കാർട്ടീഷ്യൻ സ്ട്രെസ് ഘടകം മാത്രമേ നൽകുന്നുള്ളൂ ഇത് രണ്ട് ശ്രേണികളുടെ സംഗ്രഹമായി നൽകിയിരിക്കുന്നു എ I n കോഫിഫിഷ്യന്റ് ഉൾപ്പെടുന്ന ആദ്യ സീരീസ് രണ്ടാമത്തെ സീരീസിൽ എ IIn ഉൾപ്പെടുന്നു അതിനാൽ ആദ്യ സീരീസ് മോഡ് I ലോഡിംഗിനെ ഉദ്ദേശിച്ചുള്ളതാണ് ഇവിടെ സീരീസിലെ രണ്ടാമത്തെ ടേം മോഡ് II ലോഡിംഗിനായി ഉദ്ദേശിക്കുന്നു N 1 മുതൽ ഇൻഫിനിറ്റി വരെ വ്യത്യാസപ്പെടുന്നു എനിക്ക് n ബൈ 2 A In r പവർ n മൈനസ് 2ഡിവൈഡഡ് ബൈ 2 ഉണ്ട് കൂടാതെ സിഗ്മ x ന് എനിക്ക് ഇത് 2 പ്ലസ് മൈനസ് 1 പവർ n പ്ലസ് n ബൈ 2 കോസ് n ബൈ 2 മൈനസ് 1 തീറ്റ മൈനസ് n ബൈ 2 മൈനസ് 1 ഇന്റു കോസ് n ബൈ 2 മൈനസ് 3 തീറ്റ എന്നാണ് സിഗ്മ y സ്ട്രെസ് ടേമിന് ഇത് 2 മൈനസ് മൈനസ് 1 ഹോൾ പവർ n മൈനസ് n ബൈ 2 ഇന്റു കോസ് n ബൈ 2 മൈനസ് 1 തീറ്റ പ്ലസ് n ബൈ 2 മൈനസ് 1 ഇന്റു കോസ് എൻ ബൈ 2 മൈനസ് 3 തീറ്റ എന്നതാണ് ഷിയർ സ്ട്രെസ് ഇത് മൈനസ് ഓഫ് മൈനസ് 1 പവർ n പ്ലസ് n ഇന്റു 2 സൈൻ n ബൈ 2 മൈനസ് 1 തീറ്റ പ്ലസ് n ബൈ 2 മൈനസ് 1 സൈൻ n ബൈ 2 മൈനസ് 3 തീറ്റ ആണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനറിക് എക്സ്പ്രഷന്റെ കാര്യത്തിൽ എനിക്ക് മോഡ് I സ്ട്രെസ് ഫീൽഡും മോഡ് II സ്ട്രെസ് ഫീൽഡും ഉണ്ട് ഞാൻ n മാറ്റുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ടേം മൂന്നാം ടേം നാലാം ടേം തുടങ്ങിയവ ലഭിക്കും ഒരു കൂട്ടം സമവാക്യങ്ങൾ എനിക്ക് എളുപ്പത്തിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കഴിയും അതാണ് ഒന്നാമത്തെ നേട്ടം മറ്റൊരു കാര്യം കമ്പ്യൂട്ടറൈസേഷന് ഇത് എളുപ്പമാണ് നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് ഈ സൊല്യൂഷൻ ആദ്യം എക്സ്പെരിമെന്റൽ മെക്കാനിക്സിന്റെ ഹാൻഡ്ബുക്കിൽ റിപ്പോർട്ടുചെയ്തു ഇതിന് ഒന്നോ രണ്ടോ ചെറിയ ടൈപ്പോഗ്രാഫിക്കൽ പിശകുകൾ ഉണ്ടായിരുന്നു മൈനസ് അല്ലെങ്കിൽ പ്ലസ് ചിഹ്നത്തിലോ കോസിനു പകരം സൈൻ ആയാലോ വലിയ പ്രശ്നമാവും അതിനാൽ ഈ പദപ്രയോഗങ്ങൾ എഡിറ്റുചെയ്തു അവ കഴിയുന്നത്ര കൃത്യമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്ന സങ്കീർണ്ണമായ പ്രശ്ന സാഹചര്യങ്ങൾക്കായുള്ള ഫ്രിഞ്ച് പാറ്റേൺ പുനർനിർമ്മിക്കുന്നതിന് ഇവ ഉപയോഗിക്കുന്നു അതിനാൽ ഈ പദപ്രയോഗങ്ങൾ കഴിയുന്നത്ര കൃത്യമായി എഴുതാൻ കൂടുതൽ സമയമെടുക്കുക ഈ സമവാക്യങ്ങൾ പരിശോധിച്ചതിനാൽ ഇവയിൽ ടൈപ്പോഗ്രാഫിക്കൽ പിശകുകളില്ല മോഡ് II നെ സംബന്ധിച്ചിടത്തോളം ഇത് മൈനസ് ഓഫ് സമ്മേഷൻ n ഈക്വൽ റ്റു 1റ്റു ഇൻഫിനിറ്റി n ബൈ 2 A IIn r പവർ n മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 ആണ് കൂടാതെ സിഗ്മ x ന് ഇത് 2 മൈനസ് മൈനസ് 1 പവർ n പ്ലസ് n ബൈ 2 ഇന്റു സൈൻ n ബൈ 2 മൈനസ് 1 തീറ്റ മൈനസ് n ബൈ 2 മൈനസ് 1 സൈൻ എൻ ബൈ 2 മൈനസ് 3 തീറ്റ ആണ് സിഗ്മ y യെ സംബന്ധിച്ചിടത്തോളം ഇത് 2 പ്ലസ് മൈനസ് 1 പവർ n മൈനസ് n ബൈ 2 ഇന്റു സൈൻ n ബൈ 2 മൈനസ് 1 തീറ്റ പ്ലസ് n ബൈ 2 മൈനസ് 1 സൈൻ n ബൈ 2 മൈനസ് 3 തീറ്റ മൈനസ് ഓഫ് മൈനസ് 1 പവർ n മൈനസ് nബൈ 2 കോസ് n ബൈ 2 മൈനസ് 1 തീറ്റ മൈനസ് n ബൈ 2 മൈനസ് 1 ഇന്റു കോസ് n ബൈ 2 മൈനസ് 3 ഇന്റു തീറ്റ ആണ് നിങ്ങൾക്ക് വീണ്ടും പദപ്രയോഗം നോക്കാം നിങ്ങളുടെ പദപ്രയോഗത്തിൽ ഒരു അടയാള മാറ്റമോ സൈൻ കോസ് മാറ്റമോ നടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുക എങ്ങനെയാണ് കോഎഫിഷ്യന്റ്സിനെ നിർവചിക്കുന്നത് നോക്കൂ നമുക്ക് ഒന്നോ രണ്ടോ കോഎഫിഷ്യന്റ്സിന്റെ കാര്യത്തിൽ താൽപ്പര്യമുണ്ട് കാരണം KI KII എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം മോഡ് I സാഹചര്യത്തിനായുള്ള സിഗ്മ എക്സ് സ്ട്രെസ് ഫീൽഡിലെ രണ്ടാമത്തെ പദം നമ്മൾ അതിനെ സിഗ്മ നോട്ട് എക്സ് എന്ന് ലേബൽ ചെയ്തു സ്ട്രെസ് ഫീൽഡിന്റെ സീരീസ് സൊല്യൂഷൻ അറ്റ്ലൂരി കോബയാഷി നമുക്ക് ഇതിനകം അറിയാവുന്ന അളവുകളുമായി കോഎഫിഷ്യന്റ്സ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഇവിടെ നൽകിയിരിക്കുന്നു എനിക്ക് AI1 ഈക്വൽ റ്റു KI ബൈ റൂട്ട് ഓഫ് 2 പൈ ആയി നൽകിയിരിക്കുന്നു ദയവായി ഇത് എഴുതുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AI ഉൾപ്പെടുന്ന പദങ്ങൾ മോഡ് I ലോഡിങ്ങിനു ഉള്ളതാണ് A II ഉൾപ്പെടുന്ന പദങ്ങൾ മോഡ് II ലോഡിംഗുമായി യോജിക്കുന്നു AII1 മൈനസ് KII ബൈ റൂട്ട് ഓഫ് 2 പൈ ആണ് ഈ മൈനസും മൈനസും പ്ലസ് ആയി മാറുന്നു അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിനാൽ അതിന്റെ ഭാഗമായി എനിക്ക് കോഎഫിഷ്യന്റ്സ് അറിയാമെങ്കിൽ KII KI സൊല്യൂഷൻ എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും എനിക്ക് കണ്ടെത്താൻ കഴിയും സിഗ്മ എക്സ് സീരീസിലെ രണ്ടാമത്തെ ടേം ഈ രീതിയിൽ സിഗ്മ നോട്ട് എക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 4 AI 2 ഈക്വൽ മൈനസ് സിഗ്മ നോട്ട് x ആണ് മോഡ് 1 ന്റെ ഫോട്ടോഇലാസ്റ്റിക് ഹോളോഗ്രാഫിക് ഫ്രിഞ്ച് പാറ്റേണുകൾ ഈ പദപ്രയോഗങ്ങളുടെ പ്രയോജനം നമ്മൾ കാണും ഇപ്പോൾ അത്തരം ദൈർഘ്യമേറിയ എക്സ്പ്രഷൻ കാണിക്കുന്നത് നിങ്ങളെ ആവേശഭരിതരാക്കില്ല നിങ്ങൾ ഈ ആനിമേഷനുകളെ നിരീക്ഷിക്കുകയേ വേണ്ടൂ വലതുവശത്ത് നിങ്ങൾ കാണുന്നത് പരീക്ഷണാത്മകമായി ലഭിച്ച ഫ്രിഞ്ച് പാറ്റേൺ ആണ് എനിക്ക് ഒരു ക്രാക്ക് ഉണ്ട് എനിക്ക് മുന്നോട്ട് ചരിഞ്ഞ ലൂപ്പുകളും ഫ്രന്റൽ ലൂപ്പുകളും ഉണ്ട് ഇടത് വശത്ത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളിൽ നിന്ന് ലഭിച്ച സൊല്യൂഷൻ ഉണ്ട് അത് ഒരു ഓവർ ഡിറ്റർമിനിസ്റ്റിക് ലീസ്റ് സ്ക്വയർ മെത്തഡോളജി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് സീരീസ് സൊല്യൂഷനിലെ പദങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നാല് പാരാമീറ്ററുകൾ അഞ്ച് പാരാമീറ്ററുകൾ ആറ് പാരാമീറ്ററുകൾ ഏഴ് പാരാമീറ്ററുകൾ എട്ട് പാരാമീറ്ററുകൾ എന്നിവയ്ക്കാണ് പാരാമീറ്ററുകളുടെ എണ്ണത്തിനനുസരിച്ച് KI യുടെയും സിഗ്മ നോട്ട് എക്സിന്റെയും മൂല്യം x മാറുന്നുവെന്നു നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ചിത്രം വലുതാക്കും നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചുവന്ന ഡോട്ടുകൾ കാണുന്നു ഈ ചുവന്ന ഡോട്ടുകളാണ് പരീക്ഷണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പോയിന്റുകൾ അതിനാൽ അതാണ് നിങ്ങളുടെ അൽഗോരിതത്തിലേക്കുള്ള ഇൻപുട്ട് സമയമുണ്ടെങ്കിൽ കോഴ്സിന്റെ അവസാനത്തിൽ നമ്മൾ അൽഗോരിതം നോക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് റഫറൻസ് നോക്കാനും അൽഗോരിതം എന്താണെന്ന് അറിയാനും കഴിയും ഇവയെല്ലാം പരീക്ഷണാത്മകമായി ലഭിച്ച പോയിന്റുകളാണെന്നും ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ സീരീസ് കോഎഫിഷ്യന്റ്സിനെ വിലയിരുത്താം എന്നുമാണ് ആശയം സീരീസ് കോഎഫിഷ്യന്റ്സ് ഉപയോഗിച്ച് ഫ്രിഞ്ച് പാറ്റേൺ വീണ്ടും പ്ലോട്ട് ചെയ്യുക കാരണം നിങ്ങൾക്കു മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ അറിയാംതന്നിരിക്കുന്ന പ്രോബ്ലെത്തിന്റെ മെറ്റീരിയൽ സ്ട്രെസ് ഫ്രിഞ്ച് വാല്യൂ അറിയാംഅതുപയോഗിച്ച് ഫ്രിഞ്ച് പാറ്റേൺ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാം പുനർനിർമ്മിച്ച ഫ്രിഞ്ച് പാറ്റേൺ പരീക്ഷണാത്മകമായി ലഭിച്ച ഡാറ്റയുമായി പൊരുത്തപ്പെടണം എന്നതാണ് ആശയം അതിനാൽ നിങ്ങൾ ഒരു നിരീക്ഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു പദങ്ങളുടെ എണ്ണം മാറുന്നത് ഫ്രിഞ്ചിന്റെ ജ്യാമിതീയ സവിശേഷതകൾ എങ്ങനെ മാറുന്നുവെന്ന് നോക്കുക പദങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പരീക്ഷണാത്മക ഡാറ്റയുമായി ജ്യാമിതീയ ഫ്രിഞ്ച് പാറ്റേൺ പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും അതോടൊപ്പം കെഐ സിഗ്മ നോട്ട് എക്സ് എന്നിവയുടെ മൂല്യങ്ങളിലെ വ്യത്യാസവും ശ്രദ്ധിക്കുക ഒരു മോഡ് I സാഹചര്യത്തിന്റെ കാര്യത്തിൽ ഇത് 2 പ്രസക്തമായ പാരാമീറ്ററുകളാണ് അതിനാൽ ഞാൻ ഈ ആനിമേഷൻ ആവർത്തിക്കും ഇത് അഞ്ച് പാരാമീറ്ററുകൾക്കായി ഉള്ളതാണ് ആറ് പാരാമീറ്ററുകൾ എത്തുമ്പോൾ കോൺടൂറുകൾ പൊരുത്തപ്പെടുന്നു ഏഴും എട്ടും എത്തിയാലുംഒരു മാറ്റവുമില്ലഎന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ആറ് പാരാമീറ്ററുകൾക്കപ്പുറം ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ നിരീക്ഷിക്കുന്ന സങ്കീർണ്ണമായ ഫ്രിഞ്ച് കൊണ്ടുറുകൾ നിങ്ങളുടെ പോസ്റ്റ് പ്രോസസ്സ് ചെയ്ത ഫലങ്ങളിൽ നിന്നും വളരെ നന്നായി പിടിച്ചെടുക്കുന്നു കെഐയുടെയും സിഗ്മ നോട്ട് x ന്റെയും അന്തിമ മൂല്യം ഇവിടെ നൽകിയിരിക്കുന്നു KI 0 656 എംപിഎ റൂട്ട് മീറ്ററും സിഗ്മ നോട്ട് എക്സ് 2 919 എംപിഎയുമാണ് 2 പാരാമീറ്റർ സൊല്യൂഷത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കും രണ്ട് പാരാമീറ്റർ സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് വെസ്റ്റർഗാർഡിന്റെ സിംഗുലാർ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നില്ല ചെറിയ ക്രാക്കിന് പോലും എനിക്ക് വെസ്റ്റർഗാർഡിന്റെ സിംഗുലാർ സൊല്യൂഷനെ ആശ്രയിക്കാനാവില്ലെന്ന് നമ്മൾ പറഞ്ഞു എനിക്ക് കുറഞ്ഞത് 2 പാരാമീറ്ററുകൾ ഉണ്ടായിരിക്കണം എനിക്ക് കുറഞ്ഞത് 2 പാരാമീറ്ററുകൾ ഉള്ളപ്പോൾ ഞാൻ എന്താണ് നിരീക്ഷിക്കുന്നത് എനിക്ക് മുന്നോട്ട് ചരിഞ്ഞ ലൂപ്പുകൾ മാത്രമേ ലഭിക്കൂ ഫ്രിഞ്ചെസ് പരീക്ഷണാത്മക ഡാറ്റയുമായി പൊരുത്തപ്പെടുന്നില്ല ചുവന്ന ഡോട്ടുകൾ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്നു കെ യുടെ മൂല്യം എന്താണ് കെ എന്നത് 0 445 മാത്രമാണ് ഇവിടെ സിഗ്മ നോട്ട് എക്സ് വളരെ ഉയർന്നതാണ് ഞാൻ രണ്ട് ടേം സൊല്യൂഷൻ എടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ആറ് ടേം സൊല്യൂഷനിൽ കെ തന്നെയാണെങ്കിൽ ഞാൻ വിഷമിക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ആറ് ടേം സൊല്യൂഷനിൽ കെ 0 656ആണ് ഇവിടെ എട്ട് ടേം സൊല്യൂഷനാണ് ഇത് 2 ടേം സൊല്യൂഷനിലെ കെ യേക്കാൾ ഉയർന്നത് ആണ് അതിനാൽ നിങ്ങൾ ഉയർന്ന ഓർഡർ ടെംസ് എടുക്കേണ്ടതുണ്ടെന്നു ഇത് തീർച്ചയായും പറയുന്നു അല്ലാത്തപക്ഷം KI വിലയിരുത്തൽ തെറ്റാണ് ഇത് മാത്രമല്ല ആളുകൾ രണ്ടാം ടേമിനെ വിവിധ രീതികളിൽ നോക്കിക്കാണുന്നത് ചർച്ചയിൽ നാം കണ്ടു നിങ്ങളുടെ സൊല്യൂഷന്റെ ഭാഗമായി നിങ്ങൾക്ക് രണ്ടാമത്തെ ടേം ലഭിക്കണം എന്ന് നമ്മൾ പറയുന്നു സൊല്യൂഷൻ എന്തുതന്നെയായാലും നിങ്ങൾ അത് എടുക്കേണ്ടി വന്നേക്കാം ഞാൻ രണ്ട് ടേം സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് സിഗ്മ നോട്ട് x 4 436 ആണ് എന്നാൽ അത് സ്ഥിരമായി നിലനിൽക്കുന്നില്ല സാഹചര്യത്തെ മാതൃകയാക്കാൻ രണ്ട് ടേം സൊല്യൂഷൻ പര്യാപ്തമല്ല അതിനാൽ ഫാർ ഫീൽഡ് സ്ട്രെസ് ഫീൽഡിന് സിഗ്മ നോട്ട് എക്സ് തുല്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത്തരം ചർച്ചകൾ പൂർണ്ണമായും ശരിയല്ല മൂന്ന് ടേം സൊല്യൂഷന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ മൂന്ന് പാരാമീറ്ററുകൾക്ക് കെ മാറുന്നു സിഗ്മ നോട്ട് എക്സ് മാറുന്നു ഫ്രണ്ടൽ ലൂപ്സ് പൊരുത്തപ്പെടുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ നാല് പദങ്ങളിലേക്ക് പോകുന്നു ഫ്രന്റൽ ലൂപ്പുകളുടെ രൂപീകരണത്തിൽ സമാനതയുണ്ട് കെ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായും സിഗ്മ നോട്ട് എക്സ് കുറയുന്നതായും നിങ്ങൾ കാണുന്നു അഞ്ച് പദങ്ങൾ ഇത് അൽപ്പം മികച്ചതാണ് എനിക്ക് ആറ് പദങ്ങളുണ്ടെങ്കിൽ എല്ലാ സവിശേഷതകളും അതിൽ ക്യാപ്ചർ ചെയ്യുന്നു 6 ടെംസിനപ്പുറം നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് സൊല്യൂഷൻ സ്ഥിരമാകുന്നു നോൺ ലീനിയർ ലീസ്റ് സ്ക്വയർ അനാലിസിസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം AI1 AI2 AI3 AI4 AI5 AI6 എന്നീ കോഎഫിഷ്യന്റ്സ് പരീക്ഷണാത്മക ഡാറ്റയെ അടിസ്ഥാനമാക്കി കണക്കാക്കി ഇത് വളരെ സങ്കീർണ്ണമായ അൽഗോരിതം ആണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീണ്ടും പ്ലോട്ട് ചെയ്യുന്നു ഈ പ്രശ്നത്തിനായി നിങ്ങൾ കണ്ടെത്തി മോഡലിന് കുറഞ്ഞത് 6 പാരാമീറ്ററുകൾ ആവശ്യമാണ് നിങ്ങൾക്ക് ലീസ്റ് സ്ക്വയർ അപ്പ്രോച്ച് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അന്തിമ സൊല്യൂഷൻ ശരിയാണെന്നതിന് ഒരു ഉറപ്പുമില്ല ഇവിടെ എന്റെ അന്തിമ സൊല്യൂഷൻ പരീക്ഷണവുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഫ്രിഞ്ച് പാറ്റേണുകൾ പുനർനിർമ്മിക്കുന്നു നമ്മൾ ശരിയായ മിനിമത്തിലേക്ക് കൺവെർജ് ചെയ്തുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു അതുവഴി സൊല്യൂഷൻ സ്ട്രെസ് മേഖലയെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പിക്കാം ജ്യാമിതീയ സവിശേഷതകളിൽ തികച്ചും വ്യത്യാസമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തി ഹോളോഗ്രാഫിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം രണ്ട് പാരാമീറ്ററുകൾ മൂന്ന് പാരാമീറ്ററുകൾ നാല് എന്നിവയ്ക്കായി ഫ്രിഞ്ച് എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾ നോക്കുന്നു നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് ജ്യാമിതിയിൽ വലിയ മാറ്റം നിങ്ങൾ കാണുന്നില്ല നോക്കൂ നമ്മൾ ക്രാക്ക് പ്രോബ്ലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ടോ xy ക്രാക്ക് ആക്സിസിൽ 0 ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു വെസ്റ്റർഗാർഡ് സൊല്യൂഷൻ അതിശയകരമാംവിധം മാക്സിമം ടോ 0 ആണെന്ന് പറയുന്നു ഇത് ആകസ്മികമാണ് നമുക്ക് അത് വേണ്ടായിരുന്നു ക്രാക്ക് ആക്സിസിൽ മാക്സിമം ഷിയർ സ്ട്രെസ് മാറിക്കൊണ്ടിരിക്കും എന്ന് പരീക്ഷണം കാണിക്കുന്നു ഈ കാര്യം ആറ് ടേം സൊല്യൂഷൻ എടുക്കുമ്പോൾ കൃത്യമായി കാണിക്കുന്നു അതിനാൽ അന്തിമ ധാരണ ഇതാണ് നിങ്ങൾ സ്ട്രെസ് ഫീൽഡിനെ അനുസരിച്ചു മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് കോഎഫിഷ്യന്റ്സിനെ വിലയിരുത്തുന്നത് അഭികാമ്യമാണ് ഫ്രാക്ചർ മെക്കാനിക്സിലെ സമവാക്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ ഒന്നിൽ കൂടുതൽ ഉദാഹരണങ്ങളും നമ്മൾ കാണും മൾട്ടി പാരാമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് സമവാക്യവും നമ്മൾ കാണും വെസ്റ്റർഗാർഡ് ജനറലൈസ്ഡ് വെസ്റ്റർഗാർഡ് പിന്നെ വില്യംസ് ഐഗേൻ ഫംഗ്ഷൻ പിന്നെ അറ്റ്ലൂരി കോബയാഷി ഫങ്ഷൻ എന്നിവ നിങ്ങൾ കണ്ടു അവ വ്യത്യസ്തമായിരിക്കാൻ കഴിയില്ല ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണമെന്ന് യുണീക്നെസ്സ് സിദ്ധാന്തം പറയുന്നു അതിനാൽ കോഎഫിഷ്യന്റ്സ് തമ്മിലുള്ള ഐഡന്റിറ്റിയും നമ്മൾ പരിശോധിക്കണം വാസ്തവത്തിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഈ ചില പാറ്റേണുകൾ വരയ്ക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ കുറിപ്പുകളുടെ ഭാഗമായി ഈ ഫ്രിഞ്ച് പാറ്റേണുകളും ആവശ്യമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇതൊക്കെയാണ് മൾട്ടി പാരാമീറ്റർ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ നോക്കിയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് അടുത്ത ക്ലാസിലേക്ക് മാറ്റിവയ്ക്കും നിങ്ങൾക്ക് ധാരാളം എഴുതാനുണ്ടായിരുന്നു ഈ സമവാക്യങ്ങൾ വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് അവ പുസ്തകങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സമവാക്യങ്ങൾ പ്രയോജനപ്പെടും